ആൻറിന പാറ്റേണുകളുടെ സമന്വയം എന്ന ഈ അധ്യാപനത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ യൂണിഫോം ശ്രേണിയുടെ കാര്യത്തിൽ ആലേഖകന് വശങ്ങളിലെ ലോബ് ലെവൽ ഡയറക്റ്റിവിറ്റി അല്ലെങ്കിൽ മെയിൻ ലോബ് ബീംവിഡ്ത്ത് എന്നിവ തീരുമാനിക്കുന്നതിൽ വേണ്ടത്ര സ്വാതന്ത്ര്യം ഇല്ല എന്ന് നമ്മൾ ചർച്ച ചെയ്തു അതുകൊണ്ടാണ് കുറെ കൂടെ സങ്കീർണമായ കാര്യങ്ങൾ ഉണ്ടായിരിക്കുന്നത് ഓരോന്നിന്റെയും ഉത്തേജനത്തിന്റെ ആംപ്ലിറ്റ്യൂഡിന് നമ്മൾ മാറ്റം വരുത്തിയാൽ അവയും മാറും അല്ലെങ്കിൽ അതിനെ കോംപ്ലക്സ് ആംപ്ലിറ്റ്യൂഡ് എന്ന് വിളിക്കാം അതിനർത്ഥം ഒറ്റയ്ക്ക് ഒറ്റയ്ക്കുള്ള ഉത്തേജനവും ഫേസും അവയിൽ മാറ്റങ്ങൾ വരുത്തിയാൽ മെയിൻ ബീമിൻറെ ആകൃതിയിലും വീതിയിലും വശങ്ങളിലെ ലോബിൻറെ സ്ഥാനത്തിലും ആംപ്ലിറ്റ്യൂഡിലും മെച്ചപ്പെട്ട നിയന്ത്രണങ്ങൾ നടപ്പിൽ വരുത്താമെന്ന് നമ്മൾക്ക് കാണാൻ കഴിയും അതുകൊണ്ട് ഇതാണ് പ്രതിപാദ്യവിഷയം അതുകൊണ്ട് നമ്മൾക്ക് നൽകപ്പെടുന്ന പാറ്റേൺ നമ്മൾക്ക് സംയോജിപ്പിച്ചുണ്ടാക്കാൻ കഴിയും അത് നമ്മൾ ചെയ്യും നമ്മൾ നമ്മളെ മുഴുവനായി ഇവിടെ u പ്രതലത്തിൽ പരിമിതപ്പെടുത്തിയിരിക്കുന്നു അറേ ഫാക്ടർ നമ്മൾ കാണും വ്യത്യസ്തമായ ഒന്ന് രൂപപ്പെടുത്തുന്നതിന് ഓരോ അംഗങ്ങളുടെ ഉത്തേജനം അത് എങ്ങനെ തെരഞ്ഞെടുക്കണമെന്ന് നമ്മൾ സൂചിപ്പിക്കും യഥാർത്ഥത്തിൽ ഇവിടെ വ്യത്യസ്ത വിദ്യകളുണ്ട് ഗവേഷണത്തിലെ സജീവമായ ഒരു മേഖലയാണിത് ഇപ്പോൾ പോലും ഇത് വികസിച്ചുകൊണ്ടിരിക്കുന്നു ഒരു കാര്യം നമ്മൾ പരിഗണിച്ചില്ല അതായത് ശ്രേണിയിലെ അംഗങ്ങളെ അടുത്തടുത്ത് വയ്ക്കുമ്പോൾ അവ തമ്മിൽ രൂപപ്പെടുന്ന മ്യൂച്ചൽ കപ്ലിംഗ് അതുകൊണ്ട് നമ്മുടെ എല്ലാ പദ്ധതികളും മാറാം കാരണം ഇവിടെ നമ്മൾ മ്യൂച്ചൽ കപ്ലിംഗിനെ കുറിച്ച് പറയുന്നില്ല പക്ഷേ മ്യൂച്ചൽ കപ്ലിംഗ് മാറ്റങ്ങൾ വരുത്തും അതുകൊണ്ട് എങ്ങനെയാണ് ഉത്തേജനത്തിന്റെ ഗുണകത്തെ തെരഞ്ഞെടുക്കുന്നത് എന്നത് സംബന്ധിച്ച് ആളുകൾ മെച്ചപ്പെട്ട വളരെയധികം രീതികൾ കണ്ടുപിടിച്ചു വരുന്നുണ്ട് അങ്ങനെയുള്ള വികസിച്ച മേഖലകളിലേക്ക് നമ്മൾ ആഴത്തിൽ കടന്നുപോകുന്നില്ല പക്ഷേ ശ്രേണികളുടെ സമന്വയത്തിന് സഹായിക്കുന്ന അടിസ്ഥാനപരമായ ചില രീതികൾ നമ്മൾ കാണും യഥാർത്ഥത്തിൽ നമ്മൾ ഏകമാന ശ്രേണികളെ ചർച്ച ചെയ്യുന്നുള്ളൂ നമ്മൾ ചർച്ച ചെയ്യുന്ന രീതി ദ്വിമാന ശ്രേണിയിലേക്ക് വ്യാപിപ്പിക്കാവുന്നതാണ് ആദ്യം നമുക്ക് 2N പ്ലസ് 1 അംഗങ്ങളുള്ള ഒരു രേഖീയ ശ്രേണി നോക്കാം അംഗങ്ങൾ z അക്ഷത്തിൽ ആണ് Nth അംഗത്തിന്റെ ഉത്തേജനം എന്നത് CN ന് ആനുപാതികമായിരിക്കും അതായത് C1 C2 മുതലായവ 2N പ്ലസ് 1 അംഗങ്ങളെ എടുക്കുന്നതുകൊണ്ട് ഇവിടെ നമുക്ക് C0 ഉം ഉണ്ട് അതുകൊണ്ട് ഒരു അംഗം കേന്ദ്രത്തിൽ ആയിരിക്കും അതുകൊണ്ട് അറേ ഫാക്ടർ എന്നത് n സമം മൈനസ് N മുതൽ പ്ലസ് N വരെ Cn e പവർ j k0 nd കോസ് തീറ്റ എന്ന് നമുക്ക് എഴുതാൻ കഴിയും ഇനി നമ്മൾ Cn സമം C n എന്ന് എടുത്താൽ നമുക്ക് C0 പ്ലസ് n സമം 1 മുതൽ വലിയ അക്ഷരം N വരെ 2Cn കോസ് nu എന്നുകിട്ടും ഈ വശത്തെ ഇതിനെ ഞാൻ F എന്ന് വിളിച്ചാൽ അവിടെ u ന് മുൻപിൽ ഉള്ളത് വേറൊന്നുമല്ല k0d കോസ് തീറ്റ ആണ് വീണ്ടും ഇവിടെ നമ്മൾ u0 എന്നത് ഫേസ് ഉത്തേജനത്തിൽ പൂജ്യം ആണെന്ന് സങ്കൽപ്പിക്കുന്നു അതുകൊണ്ട് Cn ഒരു കോംപ്ലക്സ് സംഖ്യയാണ് ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് വേറൊന്നുമല്ല ഫൊറിയർ സീരിസ് ആണ് ഇത് N പ്ലസ് 1 അറിയുന്ന ആംപ്ലിറ്റ്യൂഡുകളുള്ള കൊസൈൻ ഫൊറിയർ സീരിസ് ആണ് എനിക്ക് F അറിയാമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഏകദേശം സൂചിപ്പിക്കുകയാണ് എങ്കിൽ C0 Cn മുതലായ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ കഴിയും ശ്രദ്ധിക്കുക നമ്മളുടെ തീറ്റ പൂജ്യം മുതൽ പൈ വരെ മാറിക്കൊണ്ടിരിക്കുന്നതാണ് മൈനസ് k0d മുതൽ പ്ലസ് k0d വരെയാണ് കാണുന്ന സ്ഥലത്തിന് തത്തുല്യമായ u ന്റെ പരിധി എന്നിരുന്നാലും u പ്രതലത്തിലെ ഒരു മുഴുവൻ പിരീഡിന് പാറ്റേൺ എന്താണെന്ന് വ്യക്തമാക്കേണ്ടതാണ് അതായത് മൈനസ് പൈ മുതൽ പ്ലസ് പൈ വരെ അതുകൊണ്ട് പാറ്റേൺ വ്യക്തമാക്കിയാൽ നമുക്ക് അത് ഏകദേശം കണ്ടുപിടിക്കാൻ കഴിയും അതുകൊണ്ട് ഇപ്പോൾ Cn ന്റെ വില എന്തായിരിക്കും ഫൊറിയർ സീരീസിനെ സംബന്ധിച്ച അറിവിൽ നിന്നും അത് 1 ഹരിക്കണം 2 പൈ മൈനസ് ഇൻഫിനിറ്റി മുതൽ പ്ലസ് ഇൻഫിനിറ്റി വരെ Fd കോസ് nu du എന്ന് നമുക്ക് എളുപ്പത്തിൽ എഴുതാം ഇതാണ് എനിക്ക് വേണ്ടത് അടുത്തതിൽ ഇത് തന്നിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇവിടെ ഇത് Fd ആണ് അതിനർത്ഥം റെക്ട്യാൻഗുലർ ഫംഗ്ഷൻ മൈനസ് k0d ഹരിക്കണം 2 മുതൽ പ്ലസ് k0d ഹരിക്കണം 2 വരെയാണ് വീതികൂടിയ ശ്രേണികൾക്ക് കാണപ്പെടുന്ന സ്ഥലം ഇവിടെ മൈനസ് k0d മുതൽ പ്ലസ് k0d വരെയാണ് C0 എന്നത് 1 ഹരിക്കണം 2 പൈ ആണെന്ന് എനിക്ക് കണ്ടുപിടിക്കാൻ കഴിയും റെക്ട്യാൻഗുലർ ഫംഗ്ഷൻ ആയതു കാരണം ഇത് cos nu du ആണ് അതുകൊണ്ട് 1 ഇവിടെയുണ്ട് അതുകൊണ്ട് ഇത് 1 ഹരിക്കണം n pi സൈൻ n k0d ഹരിക്കണം 2 ആയിത്തീരും അതുകൊണ്ട് ഏഴ് അംഗങ്ങളുള്ള ശ്രേണിക്ക് പാറ്റേൺ ഇതുപോലെ ആയിരിക്കും എന്ന് നിങ്ങൾക്ക് കാണാം സമന്വയിപ്പിച്ച പാറ്റേൺ തീർച്ചയായും ഏഴ് അംഗങ്ങൾ ചെറുതായതുകൊണ്ടാണ് റെക്ട്യാൻഗുലർ ഇങ്ങനെ ഇരിക്കുന്നത് നിങ്ങൾ കൂടുതൽ അംഗങ്ങളെ കൂട്ടിച്ചേർക്കുന്നത് തുടരുകയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമായ തരത്തിലുള്ള പാറ്റേൺ നിങ്ങൾക്ക് ഉണ്ടാക്കാം ഇതാണ് ഒരു സമീപനം ഇത് വളരെ എളുപ്പമാണ് അതോടൊപ്പം ഇത് ആവശ്യമായ പാറ്റേണിന് ഏറ്റവും കുറഞ്ഞ മീൻ സ്ക്വയർ എറർ തരും എന്ന് ആളുകൾ തെളിയിച്ചിട്ടുണ്ട് പക്ഷേ പ്രശ്നം എന്താണെന്ന് വച്ചാൽ ഇവിടെ നിങ്ങൾക്ക് വശങ്ങളിലെ ലോബുകളുണ്ട് വേറൊരു വഴി എന്താണെന്ന് വെച്ചാൽ എനിക്ക് വശങ്ങളിൽ ഒരു ലോബും പാടില്ല അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഈ രീതി ഫൊറിയർ സീരിസ് മെത്തേഡ് എന്നു വിളിക്കപ്പെടുന്നു ഇത് നിങ്ങൾ ഇതിനോടകം കണ്ടതാണ് ഇനി അടുത്ത വേറൊരു സമീപനം നമുക്ക് കാണാം അറേ ഫാക്ടർ എന്നത് e പവർ j k0d ഹരിക്കണം 2 കോസ് തീറ്റ പ്ലസ് e പവർ മൈനസ് j k0d ഹരിക്കണം 2 കോസ് തീറ്റ എന്ന് നമ്മൾ എഴുതിയത് കണ്ടതാണ് കാരണം അവ രണ്ടും തുല്യാനുപാതത്തിൽ ഗുണിക്കണം 2 പവർ N എന്ന് ഇതുപോലെ നമുക്ക് എഴുതാം അതുകൊണ്ട് നമുക്ക് e പവർ j u ഹരിക്കണം 2 പ്ലസ് e പവർ മൈനസ് j u ഹരിക്കണം 2 ഈ പദങ്ങളുടെ എല്ലാം പവർ 2N സമം 2 പവർ 2N cos u ഹരിക്കണം 2 ഈ പദത്തിൻ്റെ മുഴുവൻ പവർ 2N സമം e പവർ മൈനസ് j Nu n സമം 0 മുതൽ 2N വരെ Cn2N e പവർ j nu എന്ന് കിട്ടും ഇത് നിങ്ങൾ വിപുലീകരിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ഇത് കിട്ടും ഇനി നിങ്ങൾ ഇത് നോക്കൂ ഉത്തേജനം ഇവിടെയാണ് കാരണം ഞാൻ അറേ ഫാക്ടർ എടുക്കുമ്പോൾ ഈ ഫാക്ടർ പോയി പോകും ഇത് വേറൊന്നുമല്ല ബൈനോമിയൽ ശ്രേണിയാണ് അതുകൊണ്ടാണ് ഈ ശ്രേണിയെ ബൈനോമിയൽ ശ്രേണി എന്നു വിളിക്കുന്നത് ഇനി നമുക്ക് ബൈനോമിയൽ ശ്രേണിയുടെ ഒരു പ്രത്യേകത അറിയാം അതായത് Cn2N എന്നത് C2N n 2N തുല്യമായിരിക്കും അതുകൊണ്ട് F എന്നത് C02N e പവർ മൈനസ് j Nu പ്ലസ് C2N2N e പവർ പ്ലസ് j Nu എന്ന് എഴുതാൻ കഴിയും വീണ്ടും ഇതും ഫൊറിയർ സീരിസിന്റെ വകഭേദം തന്നെയാണ് പക്ഷേ ഇതിൻറെ മനോഹാരിത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പാറ്റേൺ കാണാം പാറ്റേൺ ഇതുപോലെയാണ് കാണപ്പെടുന്ന സ്ഥലം മുൻപത്തേതു പോലെ തന്നെയാണ് കാരണം നമ്മൾ ആൽഫ പൂജ്യം ആണെന്ന് അല്ലെങ്കിൽ u0 പൂജ്യം ആകേണ്ടത് പോലെ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ വശങ്ങളിൽ ലോബുകൾ ഇല്ല വേറെ ഒരു അസാധാരണമായ അവസ്ഥ ഇതാണ് അതായത് ഇവിടെ വശങ്ങളിൽ ലോബുകൾ ഒന്നുമില്ല പക്ഷേ എന്താണ് പ്രശ്നം തീർച്ചയായും ഈ ബീംവിഡ്ത്ത് യൂണിഫോമിനെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ് ഇത് അതിൽ തന്നെ സ്പഷ്ടമാണ് കാരണം ഇത് ബൈനോമിയൽ ആയ ഒന്നായി നമ്മൾ എടുക്കുമ്പോൾ തന്നെ വശങ്ങളിലെ ഉത്തേജനത്തിന്റെ ആംബ്ലിറ്റ്യൂഡ് വളരെ ചെറുതാകും അതുകൊണ്ട് ശ്രേണിയുടെ നീളം യഥാർത്ഥത്തിൽ കുറഞ്ഞു കാരണം കാര്യക്ഷമമായി ഇൻറർഫറൻസ് അല്ലെങ്കിൽ അരികുകളിൽ നിന്നുള്ള പ്രസരണം അവ യഥാർത്ഥത്തിലുള്ള പ്രസരണത്തിൽ പങ്കാളികൾ ആകുന്നില്ല അതുകൊണ്ടാണ് ഹാഫ് പവർ ബീം വിഡ്ത്ത് വിശാലമായത് അതുകൊണ്ട് ലഭ്യമായ ശ്രേണിയുടെ നീളത്തിന്റെ കാര്യക്ഷമമല്ലാത്ത ഉപയോഗം ഇവയാണ് ഇനി നമ്മൾ കണ്ട കാര്യത്തിലേക്ക് നമ്മൾക്ക് വരാം നിങ്ങൾക്ക് ഇത് ലളിതമാക്കണമെങ്കിൽ അതായത് നിങ്ങൾക്ക് വശങ്ങളിലെ ലോബുകൾ കുറയ്ക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇത് തെരഞ്ഞെടുക്കാം നിങ്ങൾക്ക് ഗെയിൻ ഒരു പ്രശ്നം അല്ലെങ്കിൽ ബൈനോമിയൽ ശ്രേണി നല്ലൊരു വഴിയായിരിക്കും അതുപോലെ നിങ്ങൾക്ക് ധാരാളം അംഗങ്ങൾ ഉണ്ടാകണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഫൊറിയർ സീരിസ് തെരഞ്ഞെടുക്കാം സ്ഥലം മുതലായവ നിങ്ങൾക്ക് ഒരു പ്രശ്നം അല്ലെങ്കിൽ ഏകദേശം നിങ്ങൾക്ക് ഫൊറിയർ സീരിയസ് എടുക്കാം അത് നിങ്ങൾക്ക് ചെയ്യാം ഇനി നമുക്ക് യഥാർത്ഥ കാര്യത്തിലേക്ക് വരാം അതായത് ഇതിൽ പുരോഗതി കാര്യമായി വന്നത് സ്കെക്കുനോഫിലിൽ നിന്നാണ് അദ്ദേഹം യഥാർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞത് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് യഥാർത്ഥത്തിൽ അതൊരു സംഖ്യയുടെ കളിയാണ് അല്ലാതെ നിഷേധാത്മകമായ കാര്യങ്ങൾ ഒന്നും അതിൽ ഇല്ല അതുകൊണ്ട് നമുക്ക് എണ്ണം കൊടുക്കാം ഒരു വശത്തു നിന്ന് നമുക്ക് പൂജ്യത്തിൽ നിന്നും തുടങ്ങി N വരെ പോകാം അതുകൊണ്ട് ഇതില്ല അതോടൊപ്പം നമ്മൾ പരിഗണിക്കുന്ന ഫേസ് u0 ആണെന്ന് വിചാരിക്കുക അതുകൊണ്ട് u0 ആൽഫ d ആണ് പ്ലസ് z അക്ഷത്തിൽ മാത്രമേ നമ്മൾക്ക് അംഗങ്ങൾ ഉള്ളൂ ഇത് നമ്മൾക്ക് സാമാന്യവൽക്കരണം നഷ്ടപ്പെടാതെ തന്നെ പറയാൻ കഴിയും ഇപ്പോഴും നമ്മുടെ അംഗങ്ങളുടെ നീളം N പ്ലസ് 1 തന്നെയാണ് അതുകൊണ്ട് n സമം 0 മുതൽ N വരെ Cn e പവർ j nu പ്ലസ് u0 ആണ് അവിടെ u എന്നത് k0d കോസ് തീറ്റ ആണ് u0 ആൽഫ d ആണ് ഇനി നമുക്ക് നിർവചിക്കാം യഥാർത്ഥത്തിൽ സ്കെക്കുനോഫിലും ഇത് ചെയ്തിട്ടുണ്ട് അദ്ദേഹം ഒരു കോംപ്ലക്സ് വേരിയബിൾ Z അതായത് e പവർ j u പ്ലസ് u0 നിർവചിച്ചു അതുകൊണ്ട് അറേ ഫാക്ടർ F എന്നത് n സമം 0 മുതൽ N വരെ Cn Zn ആണ് അതുകൊണ്ട് ഈ Z പവർ n അല്ലെങ്കിൽ അതിനർത്ഥം ഈ വിവരണം വേറൊന്നുമല്ല ഓർഡർ n ആയ ഒരു പോളിനോമിയൽ വിവരണമാണ് അതാണ് അദ്ദേഹത്തിൻ്റെ സംഭാവന ഇപ്പോൾ ഗണിതശാസ്ത്രം ഇതുപോലെയുള്ള വ്യത്യസ്തങ്ങളായ പോളിനോമിയലുകളെ കുറിച്ചുള്ള പഠനങ്ങളാൽ സമ്പുഷ്ടമാണ് അതുകൊണ്ട് പോളിനോമിയലുകളുടെ ഗുണവിശേഷങ്ങൾ ശ്രേണി പാറ്റേണുകളുടെ സമന്വയത്തിനായി ഇപ്പോൾ ഉപയോഗിക്കാം ആദ്യമായി ഓർഡർ n ആയ ഈ പോളിനോമിയലിന് n എണ്ണം പൂജ്യങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് കാണാം ഞാൻ N വിപുലീകരിക്കുകയാണെങ്കിൽ ഇത് ഓർഡർ n ആയ ഒരു പോളിനോമിയൽ ആണ് അതുകൊണ്ട് ഇതിന് n എണ്ണം പൂജ്യങ്ങൾ ഉണ്ട് അതുകൊണ്ട് F എന്നത് CN Z മൈനസ് Z1 Z മൈനസ് Z2 Z മൈനസ് ZN എന്ന് എഴുതാം എന്താണ് Z മൈനസ് Z1 എന്ന ഓരോ ഘടകവും നമുക്ക് അതിനെ രണ്ട് അംഗങ്ങളുള്ള ശ്രേണിയുടെ അറേ ഫാക്ടർ എന്ന് വ്യാഖ്യാനിക്കാം അങ്ങനെ n പ്ലസ് 1 അംഗങ്ങളുള്ള ശ്രേണിയുടെ അറേ ഫാക്ടർ എന്നത് F ൻ്റെ പൂജ്യങ്ങളിൽ നൾസ് നിർമ്മിക്കുന്നതായി കൂടിച്ചേരുന്ന N എണ്ണമുള്ള രണ്ട് അംഗങ്ങളുടെ ശ്രേണിയുടെ അറേ ഫാക്ടറുകളുടെ ഗുണനഫലം ആയിരിക്കും അതുകൊണ്ട് മുഴുവൻ അറേ പാറ്റേൺ എന്നത് ഓരോ പോളിനോമിയലിനോടും ഒപ്പമുള്ള പാറ്റേണുകളുടെ ഗുണനമായിരിക്കും അദ്ദേഹം അത് പറഞ്ഞതുകൊണ്ട് നിങ്ങൾ ഈ ട്രാൻസ്ഫോർമേഷൻ Z 1 എന്നത് കാണുന്നു അതുകൊണ്ട് u ന്റെയും u0 ന്റെയും എല്ലാ റിയൽ വാല്യൂവിനും കാണപ്പെടുന്ന സ്ഥലം മൈനസ് k0d പ്ലസ് u0 മുതൽ പ്ലസ് k0d പ്ലസ് u0 വരെ വ്യാപിക്കുന്ന ആരം 1 ആയ വൃത്തത്തിൻറെ തത്തുല്യമായ ഭാഗമായിരിക്കും നിങ്ങൾക്ക് ഇപ്പോൾ ആലേഖകന്റെ മനോധർമ്മം കാണാം എനിക്ക് ആരം ഒന്ന് ആയ ഒരു വൃത്തം ഉണ്ടെങ്കിൽ ഈ കാര്യത്തിൽ d ഇലമെന്റ് അകലം ലാംഡ 0 ഹരിക്കണം 2 നേക്കാളും വലുതാണ് അതുകൊണ്ട് യഥാർത്ഥത്തിൽ നിങ്ങൾ ഇവിടെ ഇത് ചെയ്യുകയാണെങ്കിൽ ഇതാണ് കാണപ്പെടുന്ന സ്ഥലത്തിൻ്റെ ആരംഭം ഈ കാണപ്പെടുന്ന സ്ഥലത്തിൽക്കൂടെ മുഴുവനായി നിങ്ങൾ നീങ്ങുകയാണ് എങ്കിൽ ഇത് ഒരു മുഴുവൻ വൃത്താകാരം പൂർത്തിയാക്കുകയും എന്നിട്ട് വീണ്ടും ഇവിടെ വരുകയും ചെയ്യും അതുകൊണ്ട് വളരെയധികം തവണ ഇത് ചുറ്റി കൊണ്ടിരിക്കുകയാണ് അതിൻറെ ഏക കാരണം ഇത് u0 പൂജ്യമായ വീതികൂടിയ ഒരു ശ്രേണി ആണെന്നും d എന്നത് ലാംഡ 0 ഹരിക്കണം 2 നേക്കാളും വലുത് ആയിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത് എന്നതുകൊണ്ടും നമുക്കിത് വളരെയധികം തവണ ചലിപ്പിക്കുവാൻ കഴിയും ഇനി പോളിനോമിയലുകളുടെ സീറോസ് അതായത് ഞാൻ വളരെയധികം തവണ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് അനേകം സീറോസ് ഒരു സ്ഥലത്ത് ഉണ്ടാകും അനേകം സീറോസ് ഒരു സ്ഥലത്ത് ഉണ്ടാകും എന്നതിന് അർത്ഥം ഇത് സീറോകളുടെ സമീപത്ത് കൂടുതൽ കൂടുതൽ പരന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് നിങ്ങൾ ബട്ടർവർത്ത് പോളിനോമിയൽ ഓർക്കുന്നുണ്ടെങ്കിൽ ഏതൊരു n ഓർഡർ ബട്ടർവർത്ത് പോളിനോമിയലിന്നും n പ്ലസ് 1 എണ്ണം സീറോകൾ ഉണ്ടായിരിക്കും അതുകൊണ്ട് അവിടെ ഇത് പരമാവധി പരപ്പുള്ളതായിരിക്കും ഇനിയെനിക്ക് നൾ എന്നതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ സീറോകളെ എടുത്താൽ മതി കാരണം ഈ സീറോകൾ വേറൊന്നുമല്ല അറേ പാറ്റേണുകളുടെ നള്ളുകൾ ആണ് അതുകൊണ്ട് അവിടെ എനിക്ക് പരമാവധി പരന്ന രീതിയിലുള്ള പാറ്റേൺ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ കൂടുതൽ കൂടുതൽ സീറോകൾ കൂട്ടി ചേർക്കേണ്ടിവരും യഥാർത്ഥത്തിൽ സദൃശ്യമായ ഒന്ന് ഞാൻ വരച്ചിട്ടുണ്ട് എന്തു സംഭവിക്കുന്നു നിങ്ങൾക്ക് ഒരു റബ്ബർബാൻഡ് ഉണ്ടെന്നും നിങ്ങൾ അത് ഏതെങ്കിലും സ്ഥലത്തിന് മുകളിലായി പിടിച്ചിരിക്കുകയാണ് എന്നും സങ്കൽപ്പിക്കുക ഇനി റബർബാൻഡിൻറെ ഏതെങ്കിലും ഒരു ബിന്ദു ഞാൻ പ്രതലത്തിലേക്ക് കുത്തി ചേർത്തു എന്ന് വിചാരിക്കുക പ്രതലത്തിന് അരികിൽ ഫങ്ക്ഷൻ ചെറിയ വിലകളിൽ പരിമിതപ്പെട്ടിരിക്കുന്നു ഇനി വീണ്ടും ഞാൻ മറ്റൊരു ബിന്ദു കുത്തിച്ചേർക്കുകയാണെങ്കിൽ ഈ രണ്ട് ബിന്ദുക്കളും അടുത്തവ ആണെങ്കിൽ എനിക്ക് ലെവൽ താഴ്ത്താൻ കഴിയും സീറോ ഇരിക്കുന്നത് നിങ്ങളുടെ കയ്യിലാണ് എവിടെ നിങ്ങൾ സീറോകളെ വയ്ക്കും എനിക്ക് അനവധി കുത്തിച്ചേർത്തവ ഉണ്ടെങ്കിൽ ഇത് പരമാവധി പരന്നിരിക്കും അതിനർത്ഥം ഇത് വളരെയധികം കൂർത്ത വശങ്ങളിലുള്ള ഒരു ലോബ് ആയി മാറാൻ പോകുന്നില്ല അതുകൊണ്ട് വശങ്ങളിലുള്ള ലോബുകളുടെ സാന്നിധ്യം കുറവായിരിക്കും അതുകൊണ്ട് ഇത് ആലേഖകൻ്റെ മനോധർമം ആണ് അതായത് എവിടെ ഇയാൾ വയ്ക്കും എന്നത് എന്താണ് ആലേഖന് കിട്ടുന്നത് എന്നത് അംഗങ്ങളുടെ അകലത്തെ ആശ്രയിച്ചിരിക്കുന്നു അംഗങ്ങൾ തമ്മിലുള്ള അകലം ലാംഡ 0 ഹരിക്കണം 2 എന്നതിനു പകരം നിങ്ങൾ ഇത് കണ്ടു നോക്കൂ പക്ഷേ ഇവിടെ ഒരു ഫെയ്സ് വ്യതിയാനം ഉണ്ട് അത് ഇവിടെ എഴുതിയിട്ടില്ല ഇതൊരു എൻഡ് ഫയർ ശ്രേണിയാണ് ഫെയ്സ് വ്യതിയാനം 90 ഡിഗ്രി ആണ് കാണപ്പെടുന്ന സ്ഥലം മുഴുവനായി മൂടപ്പെട്ടതല്ല എന്നും നിങ്ങൾക്ക് കാണാം ഈ ബിന്ദു തീറ്റ സമം പൂജ്യം ആണെന്ന് നിങ്ങൾക്ക് കാണാം കാണപ്പെടുന്ന സ്ഥലം ഇവിടെ നിന്ന് ആരംഭിക്കുന്നു ഇവിടെ അവസാനിക്കുന്നു അതുകൊണ്ട് എല്ലാ സീറോകളും ഇവിടെ ഈ കാണപ്പെടാത്ത മേഖലയിൽ വയ്ക്കേണ്ടത് ആവശ്യമായി വരുന്നു കാണാവുന്ന ഒരു സീറോയും വച്ചിട്ടില്ല അതോടൊപ്പം ഒരു തീറ്റ ഈ ബിന്ദുവിൽ ആണെന്ന് നമുക്ക് പറയാം u0 ഇതാണ് ഇത് മൈനസ് പൈ ഹരിക്കണം 4 ആണ് d എന്നത് അത് 0 75 ലാംഡ 0 ന് ഇടയിലാണ് ഇത് ഇവിടെ നിന്നും ആരംഭിച്ച് ഒരു മുഴുവൻ വൃത്തം പൂർത്തിയാക്കിയതിനുശേഷം അൽപ്പദൂരം ഏതാണ്ട് ഇതുവരെ പോകുന്നതായി നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ തീറ്റ 0 ആണെന്ന കാരണത്താൽ എത്രത്തോളം നിങ്ങൾ മറയ്ക്കും എന്നതിന് അത് വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് ഇവിടെ യാതൊരു സീറോകളും ഇവിടെ വച്ചിട്ടില്ല എന്ന് നിങ്ങൾക്ക് കാണാം എല്ലാ സീറോകളും ആലേഖൻ ഈ ബിന്ദുക്കളിൽ ആണ് വെച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് കാണാം അതുകൊണ്ട് രണ്ടാമത്തെ പ്രാവശ്യം ചുറ്റി കൊണ്ടിരിക്കുന്ന ആ ഭാഗം അത് ഇരട്ട സീറോ ആയി കാണപ്പെടുന്നു അതുകൊണ്ട് കുറേക്കൂടി പരപ്പുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് ഈ വിധത്തിലുള്ള കാര്യങ്ങളും ചെയ്യാം നമുക്ക് കുറേ കൂടി ആഴത്തിൽ കാണാം എല്ലാ സീറോകളെയും എനിക്ക് വയ്ക്കാൻ കഴിയുന്ന വിധത്തിലുള്ള അറേ ഫാക്ടർ ഞാൻ എടുത്തിരിക്കുന്നു എന്ന് സങ്കൽപ്പിക്കുക അതിനർത്ഥം എനിക്ക് N പ്ലസ് 1 എണ്ണം ഉണ്ട് അതുകൊണ്ട് N എണ്ണം സീറോകളെ ഞാൻ Z സമം മൈനസ് 1 ൽ വയ്ക്കുന്നു എന്താണ് Z സമം 1 Z സമം 1 എന്നത് ഇവിടെ നിന്നും നിങ്ങൾക്ക് കാണാം അതിനർത്ഥം u സമം u0 സമം പൂജ്യം ആണെന്നാണ് Z സമം മൈനസ് 1 എന്നതിനർത്ഥം തീറ്റ സമം പൂജ്യവും പൈയും ആണെന്നാണ് അതിനർത്ഥം പൂജ്യം എന്ന ബിന്ദുവിലും പൈ എന്ന ബിന്ദുവിലും തീറ്റ പൈ ബിന്ദുവിന് സമമാണ് ഒരു പൈ എന്ന ബിന്ദുവിൽ ഞാൻ സീറോകളെ വയ്ക്കുന്നു അതുകൊണ്ട് വളരെയധികം സീറോകൾ ഇവയെ നമ്മൾ വിപുലീകരിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ബട്ടർവർത്ത് ബൈനോമിയലിൽ കിട്ടും അതുകൊണ്ട് ഇത് ZN പ്ലസ് C1N ZN 1 പ്ലസ് C2N ZN 2 തുടങ്ങി പ്ലസ് CNN വരെ എന്നായിത്തീരും ഇത് യഥാർത്ഥത്തിൽ ബട്ടർവർത്ത് ആണ് അതുകൊണ്ടാണ് അതിൽ വശങ്ങളിലുള്ള ഒരു ലോബുകളും ഇല്ലാത്തതെന്ന് നിങ്ങൾക്ക് കാണാം അതുകൊണ്ട് മുഴുവൻ കാര്യങ്ങളും ഇതുപോലെ എനിക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ അവിടെ വശങ്ങളിലുള്ള യാതൊരു ലോബുകളും ഉണ്ടായിരിക്കില്ല കാരണം നിങ്ങൾ ദൃശ്യമായ വർണ്ണരാജിയുടെ രണ്ട് അഗ്രഭാഗങ്ങളിൽനിന്നും വന്നുകൊണ്ടിരിക്കുന്ന സീറോകളെ ഇട്ട ഒരു റബർബാൻഡ് സങ്കൽപ്പിക്കുക യഥാർത്ഥത്തിൽ പൂജ്യവും പൈയ്യും ആണ് ദൃശ്യമായ വർണ്ണരാജിയുടെ രണ്ട് അഗ്രഭാഗങ്ങൾ അതുകൊണ്ടാണ് ഇതിന് യാതൊരു ലോബും ഇല്ലാത്തത് ഇനി ഇവയ്ക്കു പകരം ഞാൻ ഇവയുടെ വർഗ്ഗങ്ങൾ എടുത്തു എന്നു വിചാരിക്കുക അതിനർത്ഥം 1 പ്ലസ് Z പ്ലസ് Z2 പ്ലസ് Z3 പ്ലസ് Z4 എന്നതു പോലത്തെ ഒരു ശ്രേണി പോളിനോമിയൽ സങ്കൽപ്പിക്കുക ഈ പോളിനോമിയലിൻറെ എല്ലാ സീറോ ബിന്ദുക്കളിലും എനിക്ക് ഇരട്ടി സീറോകൾ ആവശ്യമുണ്ട് അതുകൊണ്ട് എനിക്ക് ഇതിൻറെ വർഗ്ഗം എടുക്കാൻ കഴിയും അത് 1 പ്ലസ് 2Z പ്ലസ് 3Z2 പ്ലസ് 4Z3 പ്ലസ് 5Z5 പ്ലസ് 3Z6 പ്ലസ് 2Z7 പ്ലസ് Z8 എന്നായിത്തീരും അതുകൊണ്ട് ഇത് ഉത്തേജന ഫംഗ്ഷനുകളോട് കൂടിയ 9 അംഗങ്ങളുള്ള ഒരു ശ്രേണിയായി മാറും നിങ്ങൾക്ക് ഒരു ത്രികോണ ഡിസ്ട്രിബ്യൂഷൻ കാണാം 1 2 3 4 5 3 2 1 ഇനി നിങ്ങൾക്ക് കാണാം ഇതിൻറെ അറേ ഫാക്ടർ അതായത് ആ അഞ്ചംഗ ശ്രേണിയുടെ കറുത്ത നിറത്തിൽ ഉള്ളതാണ് ആ ഡാഷ് ആയിട്ടുള്ളത് ഇതിൻറെ വർഗ്ഗം എടുത്തു കിട്ടിയ 9 അംഗ ശ്രേണിയുടെതാണ് അവിടെ ഇതു പൂജ്യത്തിന് അടുത്ത് കൂടുതൽ പരന്നിരിക്കുന്നു അതുകൊണ്ട് എനിക്ക് വശങ്ങളിലുള്ള ലോബ് കുറയ്ക്കാൻ കഴിയും തീർച്ചയായും എനിക്ക് റേറ്റിംഗ് ഉയർത്തേണ്ടതുണ്ട് ഇതാണ് പൂജ്യത്തിനെ സ്ഥാപിക്കൽ അതായത് ആ ബിന്ദുവിൽ ആണ് നിങ്ങൾക്ക് പൂജ്യത്തെ വെക്കേണ്ടത് ഇത്രയും ഉപയോഗിച്ച് നിങ്ങൾക്ക് തുടരാവുന്നതാണ് ഇനി ചോദ്യം എന്താണെന്നുവെച്ചാൽ ഏത് സമന്വയ പ്രശ്നമാണെങ്കിലും ആത്യന്തികമായി ചോദിക്കുന്നത് ഇവയിൽ ഉത്തമമായത് ഏതാണ് എന്നതാണ് ഉദാഹരണത്തിന് ഞാൻ വശങ്ങളിലുള്ള ലോബുകളെ സൂചിപ്പിക്കുകയാണ് എങ്കിൽ എനിക്ക് ലഭിക്കാവുന്ന പരമാവധി ഡയറക്ടിവിറ്റി എന്തായിരിക്കും അതല്ല തിരിച്ചു പറയുകയാണെങ്കിൽ ഡയറക്ടിവിറ്റി ഞാൻ സൂചിപ്പിച്ചാൽ എനിക്ക് സഹിക്കേണ്ടിവരുന്ന വശങ്ങളിലെ ലോബുകളുടെ ഏറ്റവും കുറഞ്ഞ ലെവൽ എത്രയായിരിക്കും അതുകൊണ്ട് ഇതൊരു ഉത്തമമായ പ്രശ്നമാണ് ആ പ്രശ്നം പരിഹരിച്ചത് ഡോൾഫ് ആണ് അതുകൊണ്ടുതന്നെ ഇതിനെ ഡോൾഫ് ശ്രേണി എന്നു വിളിക്കുന്നു നമ്മൾ ഇത് കണ്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഇംപിഡൻസ് മാച്ചിംങ്ങ് ബേസിക് ടൂൾസ് ഓഫ് മൈക്രോവേവ് എഞ്ചിനിയറിംഗിനെ സംബന്ധിച്ച എൻറെ എൻപിടിഎൽ അധ്യാപനം കാണാം അവിടെ നമ്മൾ ചെബിഷേവ് പോളിനോമിയലിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് ചെബിഷേവ് പോളിനോമിലിന് വളരെ നല്ല ഒരു ഗുണവിശേഷം ഉണ്ട് യഥാർത്ഥത്തിൽ ഞാൻ ചെബിഷേവ് പോളിനോമിയൽ വീണ്ടും ചർച്ചയ്ക്ക് എടുക്കുന്നില്ല പക്ഷേ നമുക്ക് ചെബിഷേവ് പോളിനോമിയലിൻറെ പ്രത്യേകതകൾ കാണാം യഥാർത്ഥത്തിൽ ഇത് ചെബിഷേവ് പോളിനോമിയലിന്റെ വ്യത്യസ്തമായ ഓർഡറുകൾ ആണ് ഇത് Tn ആണ് അതുകൊണ്ട് നിങ്ങൾ കാണൂ T1 T2 T3 മുതലായവകൾക്കെല്ലാം ഒരു പ്രത്യേകതയുണ്ട് അതെന്താണെന്ന് വച്ചാൽ ഇത് x ന്റെ മൈനസ് 1 മുതൽ പ്ലസ് 1 വരെയുള്ള വിലകൾക്കിടയിൽ ആന്ദോളനം ചെയ്തുകൊണ്ടിരിക്കും അതിനു ശേഷം അതായത് എപ്പോഴാണോ ഇത് പ്ലസ് 1 ന് ഒപ്പമോ അതിന് അധികമോ അല്ലെങ്കിൽ മൈനസ് 1 ന് ഒപ്പമോ അതിന് താഴെയോ ആകുന്നത് ക്രമാനുഗതമായി അത് കൂടിക്കൊണ്ടിരിക്കും ഇതിനെ അടിസ്ഥാനമാക്കി ഇംപിഡൻസ് മാച്ചിങ്ങിൽ അല്ലെങ്കിൽ ഫിൽറ്റർ ഡിസൈനുകളിൽ നമ്മൾ പാസ് ബാൻഡ് ഇവിടെയും സ്റ്റോപ്പ് ബാൻഡ് ഇവിടെയും ഉറപ്പിക്കും ഇനി ഇവിടെ നമ്മൾ എന്ത് ചെയ്യും ആന്ദോളനങ്ങൾ അടക്കം എല്ലാം പ്ലസ് ഒന്നിനും മൈനസ് ഒന്നിനും ഇടയിലേക്ക് പരിമിതപ്പെടും എന്നത് നമ്മൾ കാണും അതുകൊണ്ട് നമ്മൾ വശങ്ങളിലുള്ള എല്ലാ ലോബുകളും മേഖലയിൽ വയ്ക്കും ഒരു വശം ഇതുമായി ഉറപ്പിയ്ക്കും മറുവശം എൻഡ് ഫയർ മുതലായ ചില കാര്യങ്ങളിൽ മെയിൻ ബീം അഗ്ര ഭാഗങ്ങളിൽ നിന്ന് വരുന്നത് കൊണ്ട് അവിടെ എനിക്ക് മുൻപോട്ട് പോകാൻ കഴിയും അതുകൊണ്ട് ചില ഭാഗങ്ങളിൽ x സമം 1 എന്നതിനെ ഞാൻ മുറിച്ചു കടക്കും കാരണം മെയിൻ ബീം അവിടെയുണ്ടെങ്കിൽ യാതൊരു പ്രശ്നവുമില്ല ഞാൻ യഥാർത്ഥത്തിൽ കൂടുതൽ ഡയറക്ടിവിറ്റി വെക്കുകയാണ് അവിടെ യഥാർത്ഥത്തിൽ ഈ കാര്യം എൻഡ് ഫയർ അറേയുടെ കാര്യം ചർച്ച ചെയ്യുമ്പോൾ ഞാൻ സൂചിപ്പിച്ചിരുന്നു അതായത് ഡോൾഫ് ചെബിഷേവ് അറേയിൽ ചിലപ്പോൾ കാണപ്പെടാത്ത സ്ഥലത്തിൻ്റെ ഒരു ഭാഗം പോയിപോകും യഥാർത്ഥത്തിൽ അത് ഇവിടെ നിന്ന് വരുന്നതാണ് ആണ് യഥാർത്ഥത്തിൽ ഈ അറേകളെ ഡോൾഫ് ചെബിഷേവ് അറേകൾ എന്നു വിളിക്കുന്നു അതുകൊണ്ട് ഇവിടെ ഞാൻ ഇതിനേക്കാളും ഉയർന്ന ചില ബിന്ദുവരെ പോകും എന്തടിസ്ഥാനമാക്കിയാണത് എനിക്ക് ആവശ്യമുള്ള വശങ്ങളിലെ ലോബ് ലെവലിനെ അടിസ്ഥാനമാക്കി ആണത് അതായത് എസ് എൽ ആർ ആവശ്യത്തെ അടിസ്ഥാനമാക്കി അതുകൊണ്ട് നമ്മൾക്ക് ഇതിലേക്ക് നോക്കാം നമ്മൾക്ക് ഒരു ഓർഡർ 2 ആയ ചെബിഷേവ് പോളിനോമിയൽ കാണാം അതോടൊപ്പം ഇവിടെ നമ്മുടെ ഫംഗ്ഷൻ x എന്നതിനു പകരം ഞാൻ ab cos എന്നാണ് എഴുതിയിരിക്കുന്നത് കാരണം ദയവായി ഓർമിക്കുക നമ്മുടെ യഥാർത്ഥ ഫംഗ്ഷൻ അല്ലെങ്കിൽ cos എന്നത് ഏകദേശം അല്ലെങ്കിൽ നമ്മുടെ u എന്നത് k0d cos θ u0 ആണ് ഇതിനോട് സദൃശ്യമായ ഒരു രൂപമാണ് ഇത് ഈ u ഒരു ചിന്താക്കുഴപ്പം സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ab cos സമം ആണെന്ന് കാണാൻ കഴിയും പുസ്തകത്തിലും അതുപോലെ എൻറെ എൻപിടിഎൽ അധ്യാപനത്തിലും സൂത്രവാക്യങ്ങൾ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആ അടിസ്ഥാനപരമായ വഴികൾ കാണാം വളരെയധികം തവണ നമ്മൾ ഇത് മൈക്രോവേവ് സാങ്കേതികവിദ്യയിൽ ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ അടിസ്ഥാനപരമായ വഴികൾ എന്ന് വിളിക്കുന്നത് അതുകൊണ്ട് ഇവിടെയും നിങ്ങൾക്ക് ഓർഡർ 2 ആയ പോളിനോമിയലിനെ u ന്റെ വാക്കുകളിൽ ഉള്ള ഫൊറിയർ സീരിസ് ആയി എഴുതാൻ കഴിയും എന്ന് കാണാം നമ്മൾ T3 ലേക്ക് പോവുകയാണെങ്കിൽ അത് 4a3 പ്ലസ് 6ab2 മൈനസ് 3a ആയിത്തീരും അതും ഒരു നിശ്ചിതമായ ഫൊറിയർ സീരിസ് ആണ് പൊതുവായി TN ഓർഡറിൽ ഉള്ള ചെബിഷേവ് പോളിനോമിയൽ കോസ് Nu പദം വരെ നീളുന്ന നിശ്ചിതമായ ഫൊറിയർ സീരിസ് ആണ് അതുകൊണ്ട് ഇത് കണ്ടുപിടിക്കാൻ കഴിയും എന്ന് എനിക്ക് പറയാം അല്ലെങ്കിൽ ഇതാണ് 2N പ്ലസ് 1 അംഗങ്ങളുള്ള ശ്രേണിയുടെ അറേഫാക്ടർ എന്ന് നമുക്ക് പറയുവാൻ കഴിയും 2N പ്ലസ് 1 അംഗങ്ങളുള്ള തുല്യാനുപാതത്തിലായ വീതിയേറിയ വശങ്ങളോടുകൂടിയ ശ്രേണിക്ക് അറേഫാക്ടർ ഫൊറിയർ സീരിസ് പോലെ എഴുതാൻ കഴിയും എന്ന് നമ്മൾ തെളിയിച്ചു നമ്മളത് എഴുതുകയും ചെയ്തു ഇത് N ഓർഡർ ഉള്ള ചെബിഷേവ് പോളിനോമിയലിനോട് തുല്യത പെടുത്താൻ കഴിയും u ന്റെ കാണപ്പെടുന്ന സ്ഥലം TN ൽ ഉള്ള x ന്റെ വിലയ്ക്ക് ക്രമാനുഗതമായി വരുന്ന രീതിയിൽ സ്ഥിരാംങ്കങ്ങളായ a യും b യും തെരഞ്ഞെടുക്കുവാൻ കഴിയും ആ പരിധി എന്നത് x സമം 1 മുതൽ x സമം x1 വരെയാണെന്ന് നമുക്ക് പറയുവാൻ കഴിയും അതിനർത്ഥം x സമം 1 മുതൽ x സമം x1 വരെ അവിടെ x1 എന്നത് ഒന്നിനേക്കാളും അധികമാണ് അതുകൊണ്ട് ആളുകൾ അത് ചെയ്തിട്ടുണ്ട് എന്തിനെ അടിസ്ഥാനമാക്കി നമ്മൾ a എന്നത് കണ്ടുപിടിക്കും ഇത് x1 വില ആണെന്ന് നമുക്ക് പറയാം അതിനുമുമ്പ് നിങ്ങൾ ഇത് പരിഹരിക്കുകയാണെങ്കിൽ രൂപകല്പനക്കു സഹായിക്കുന്ന ചില സൂത്രവാക്യങ്ങൾ നിങ്ങൾക്ക് എടുക്കാം പക്ഷേ അവിടെ വ്യത്യസ്തമായ അവസ്ഥകളും വ്യത്യസ്തങ്ങളായ അനുമാനങ്ങളും ഉണ്ട് ഏതാണ്ട് ഇതിനെയും b യെയും പോലുള്ള a b സ്ഥിരാംഗങ്ങൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കുവാൻ കഴിയുന്നതിന് ഒരു ഏകദേശ രൂപരേഖ അവ നൽകും ഈ d എന്നത് ലാംഡ 0 ഹരിക്കണം 2 ആയിത്തീരുകയാണെങ്കിൽ 'a' എന്നത് x1 മൈനസ് 1 by 2 ഉം b എന്നത് x1 പ്ലസ് 1 by 2 ഉം ആയിത്തീരും എങ്ങനെയാണ് അവ മാറിക്കൊണ്ടിരിക്കുന്നത് u ഉം x ഉം തമ്മിലുള്ള u പ്രതലത്തിൽ ഇതാണ് വേരിയൻസ് എന്നും പരമാവധി ഇത് a പ്ലസ് b വരെ പോകുമെന്നും നിങ്ങൾ കണ്ടു ആദ്യം ഇത് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയും a പ്ലസ് b വരെ പോകുമെന്നും തുടർന്ന് താഴേക്ക് മൈനസ് 1 ലേക്ക് വരുമെന്നും നിങ്ങൾ കണ്ടു k0 സംബന്ധിച്ച കാര്യം ഇതാണ് അതുകൊണ്ട് തീറ്റയും ഇവതമ്മിലുള്ളതുമായ ബന്ധവും ഇതാണ് ഇനി ചോദ്യം എന്താണെന്ന് വെച്ചാൽ എങ്ങനെയാണ് x1 തെരഞ്ഞെടുക്കുക വശങ്ങളിലുള്ള ലോബ് ലെവൽ R എന്ന് സൂചിപ്പിക്കാം അതുകൊണ്ട് TN സമം R എന്ന് ആയിരിക്കണം എന്നതാണ് നമ്മുടെ ആവശ്യം കാരണം എനിക്ക് മെയിൻ ബീം ആവശ്യമുണ്ട് അവിടെ മെയിൻ ബീമിൽ ഈ വില 1 നേക്കാൾ അധികമാണ് അതുകൊണ്ട് എനിക്ക് ഇത് ഇവിടെ ആവശ്യമാണ് അതുകൊണ്ട് SLR അടിസ്ഥാനമാക്കിയുള്ള ബിന്ദുവിൽ SLR ഇതാണെങ്കിൽ ഞാനിത് ഇവിടെ വയ്ക്കുകയും ഇവിടെനിന്നും എന്താണ് TN എന്ന് പറയുവാൻ കഴിയുകയും ചെയ്യും നിങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇത് cos ഹൈപ്പർബോളിക് Nന്റെ വിപുലീകരണമാണ് ഗാമ 1 എന്നത് R ന് സമമാണ് അതുകൊണ്ട് ഈ x1 എന്നത് ഹൈപ്പർബോളിക് ഗാമ 1 ആണ് അത് സമം കോസ് 1 ഹരിക്കണം n കോസ് ഹൈപ്പർബോളിക്ക് R ആണ് അതുകൊണ്ട് R N എന്നിവയിൽ നിന്നും എനിക്ക് വെയ്ക്കേണ്ട അംഗങ്ങളുടെ എണ്ണം ഇതിനോടകം എനിക്കറിയാം x1 എന്നത് കണ്ടുപിടിച്ചു x1 കണ്ടുപിടിച്ച നിമിഷംതന്നെ a b എന്നിവയും കണ്ടുപിടിച്ചു സ്ഥിരാംഗങ്ങൾ ആയ a b എന്നിവ കണ്ടുപിടിച്ചു എന്നതിനർത്ഥം നിങ്ങൾക്ക് ഇപ്പോൾ ബീംവിഡ്ത്ത് മുതലായവ എന്താണെന്ന് അറിയാം ഒരു വശത്തെ ലോബ് തന്നിട്ടുണ്ടെങ്കിൽ ഉപയോഗിക്കാവുന്ന ഉത്തമമായ രൂപകല്പന ഇതാണെന്ന് നിങ്ങൾക്ക് എളുപ്പത്തിൽ പറയുവാൻ കഴിയും എനിക്ക് ലഭ്യമാകാവുന്ന പരമാവധി ഡയറക്ടിവിറ്റി എന്താണെന്നും എനിക്ക് കണ്ടുപിടിക്കാൻ കഴിയും ചില രൂപകല്പനകളിൽ വിപരീതമായി ബീംവിഡ്ത് തന്നിട്ടുണ്ടാകും അതിനർത്ഥം ഡയറക്ടിവിറ്റി തന്നിട്ടുണ്ടെന്നാണ് ആ അവസ്ഥയിൽ x ഒന്ന് എന്ന വിലയിൽ എത്തുന്നതിനു മുൻപുള്ള Tn ന്റെ അവസാനത്തെ 0 ത്തിൽ നിന്നും മെയിൻ ബീം വ്യാപിക്കുന്നു അതിനർത്ഥം അവസാനത്തെ 0 ഇവിടെയാണ് ഞാൻ T1 എടുക്കുന്നു അല്ലെങ്കിൽ ഇതാണ് T2 അല്ലെങ്കിൽ T3 എന്ന് നമുക്ക് പറയാം ഇതാണ് T3 യുടെ 0 അതുകൊണ്ട് ഇവിടെ നിന്നും അവിടെ ഈ ബിന്ദു വരെ x ഒന്ന് എന്ന വിലയിൽ എത്തുന്നതിനു മുൻപുള്ള x1 വരെ Tn ന്റെ അവസാനത്തെ 0 ത്തിൽ നിന്നും മെയിൻ ബീം വ്യാപിക്കുന്നു ബീം നൾ θz ൽ വെച്ചിട്ടുണ്ടെങ്കിൽ തത്തുല്യമായ u ന്റെ വില നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിയുകയും അതുവഴി നിങ്ങൾക്ക് xz കണ്ടുപിടിക്കാൻ കഴിയുകയും ചെയ്യും xz ന്റെ ആ വില അത് അവസാനത്തെ ഒന്നിന് മുൻപുള്ള 0 ത്തിന്റെ ഈ ബിന്ദുവായി മാറും അതുകൊണ്ട് കോസ് പൈ ഹരിക്കണം 2N സമം a പ്ലസ് b കോസ് uz ആകും അതുകൊണ്ട് അവസാനമായി ഇതിൻറെ സഹായത്തോടെ 'a' എന്നത് മൈനസ് കോസ് uz പ്ലസ് xz കോസ് k0d ഹരിക്കണം കോസ് uz മൈനസ് കോസ് k0d എന്നും b എന്നത് 1 പ്ലസ് xz ഹരിക്കണം കോസ് uz മൈനസ് കോസ് k0d എന്നും ആയിത്തീരും പരമാവധി ബിം ഹരിക്കണം വശങ്ങളിലെ ലോബ് ലെവൽ അനുപാതം എന്നത് TN ൽ നിന്നും കണ്ടുപിടിക്കാം അത് സമം TNab സമം R സമം കോസ് ഹൈപ്പർബോളിക് N കോസ് ഹൈപ്പർബോളിക് a പ്ലസ് b ആണ് u ൽ 0 ആയതുകൊണ്ട് നമുക്ക് x സമം x1 സമം a പ്ലസ് b എന്നത് ഉണ്ട് അതുകൊണ്ട് വശങ്ങളിലെ ലോബ് അനുപാതത്തിന്റെ ഘടകം R ബിംവിഡ്ത്ത് സ്ഥിരം ആയിരിക്കുന്ന അവസ്ഥയിൽ അറിയുന്ന x1 ന്റെ വിലയിൽ നിന്നും x ന്റെ വിലയിൽ നിന്നും നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും ഇതിൻറെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല പക്ഷേ ഡോൾഫ് ചെബിഷേവ് നിങ്ങൾക്ക് എളുപ്പത്തിൽ കാണാൻ കഴിയും അതിന് ധാരാളം പരാമർശങ്ങൾ ലഭ്യവുമാണ് ഇനി നമുക്ക് ഈ രൂപകൽപ്പന കാണാം ഈ കാര്യത്തിൽ 20dB ആണ് വശങ്ങളിലെ ലോബുകൾ എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇത് ലഭ്യമാകും എന്ന് നിങ്ങൾക്ക് കാണാം ഇതാണ് കാണപ്പെടുന്ന സ്ഥലം അതുപോലെ അവിടെ യഥാർത്ഥത്തിൽ 1 2 3 4 5 അംഗങ്ങൾ ഉപയോഗിച്ചതു വഴിയായി നിങ്ങൾക്ക് വശങ്ങളിലെ ലോബുകൾ 20dB കിട്ടുമെന്ന് നിങ്ങൾക്ക് കണ്ടു പിടിക്കാൻ കഴിയും യഥാർത്ഥത്തിൽ സിദ്ധാന്തപരമായി നിങ്ങൾക്ക് ഇത് കിട്ടും ചെബിഷേവ് ഉപയോഗിച്ച് മാത്രമല്ല മറ്റുള്ളവ വഴിയും നിങ്ങൾക്ക് ഇത് കിട്ടും അതിന് സൂപ്പർ ഡയറക്ടീവ് അറേ എന്നൊരു പദം ഉണ്ട് യഥാർത്ഥത്തിൽ ഏതിന്റെയെങ്കിലും ഫാക്ടറിന്റെ ഓർഡർ യൂണിഫോം ശ്രേണിയുടെ വശങ്ങളിലെ ലോബ് ലെവൽ ആയ 13 5dB യേക്കാളും വലുതാണെങ്കിൽ അതിനെ സൂപ്പർ ഡയറക്ടീവ് അറേ എന്നു വിളിക്കുന്നു അതുകൊണ്ട് സമന്വയ നടപടിക്രമങ്ങൾ ഉപയോഗിച്ച് പരിമിതമായ അല്ലെങ്കിൽ തന്നിരിക്കുന്ന ശ്രേണിയുടെ നീളത്തിൽ നിങ്ങൾക്ക് ഏതൊരു ഡയറക്ടിവിറ്റിയും പ്രാപ്യം ആണെന്ന് അത് നിങ്ങൾക്ക് കഴിയും എന്ന് തെളിയിക്കപ്പെട്ടു കഴിഞ്ഞു പക്ഷേ അവയെല്ലാം പ്രായോഗികമല്ല യഥാർത്ഥത്തിൽ നിങ്ങൾ അവ ചെയ്യുകയാണെങ്കിൽ അവയ്ക്ക് ഒരു കാര്യം വളരെ അത്യാവശ്യമാണെന്ന് നിങ്ങൾക്ക് കാണാം അവയ്ക്ക് വളരെ ഉയർന്ന വൈദ്യുതിയുടെ ഉത്തേജനം കൃത്യമായി പറഞ്ഞാൽ 10 പവർ 6 ആംപിയർ തലത്തിലുള്ള ഉത്തേജനങ്ങൾ ആവശ്യമായിവരും അത് വളരെ ഉയർന്നതാണ് മറ്റൊരുകാര്യം അവയ്ക്ക് അടുത്തിരിക്കുന്ന അംഗങ്ങൾ വിപരീത ഫെയ്സിൽ ആയിരിക്കണം അതുകൊണ്ട് എന്ത് സംഭവിക്കും വളരെ ഉയർന്ന തരത്തിലുള്ള വൈദ്യുതിയുടെ ഉത്തേജനം ഉണ്ടായിരിക്കുക എന്നതും അടുത്തിരിക്കുന്നവ 180 ഡിഗ്രി വിപരീത ഫെയ്സിൽ ആയിരിക്കണം എന്നതും വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് ആത്യന്തികമായി എന്തു സംഭവിക്കും സിദ്ധാന്തപരമായി ഇത് പ്രായോഗികമാണെങ്കിലും യഥാർത്ഥത്തിൽ ഇതിൻറെ നഷ്ടം വളരെ വലുതാണ് അങ്ങനെയുള്ള ഘടനകളിൽ അതുപോലെയുള്ള ഉയർന്ന വൈദ്യുതി കാരണം പ്രതിരോധകം മുഖേനയുള്ള നഷ്ടം റേഡിയേഷൻ റസിസ്റ്റൻസിനെ അപേക്ഷിച്ച് വളരെ അധികം ആയിരിക്കും നമ്മൾ യാതൊരുവിധ നഷ്ടങ്ങളും പരിഗണിക്കാത്തതിനാൽ പ്രതിരോധകം മുഖേനയുള്ള നഷ്ടം പരിഗണിക്കാത്തതിനാൽ അവ വളരെ ഉയർന്ന ഡയറക്ടിവിറ്റി കാണിക്കുന്നു എന്നേയുള്ളൂ പക്ഷേ യഥാർത്ഥത്തിൽ പ്രായോഗികമായി ആ ആന്റിനകളെ നിങ്ങൾക്കറിയാം അതുകൊണ്ട് ഈ സൂപ്പർ ഡയറക്ടീവ് അറേകൾ ഇപ്പോൾ ഇല്ല പക്ഷേ എന്നെങ്കിലുമൊരിക്കൽ ഈ നഷ്ടം നിയന്ത്രിക്കാവുന്ന ഏതെങ്കിലും വിദ്യ കണ്ടുപിടിച്ചാൽ നഷ്ടം നിയന്ത്രിക്കാവുന്ന വിധത്തിൽ ഉത്തേജനം കൊടുക്കാമെന്ന് ആർക്കെങ്കിലും ഉറപ്പുവരുത്തുവാൻ കഴിഞ്ഞാൽ ഇത് പ്രായോഗികമാകും ഗവേഷകർ ആ ദിശയിലുള്ള അന്വേഷണം നിർത്തിയിട്ടില്ല വ്യത്യസ്തങ്ങളായ പുതിയ പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് പരീക്ഷണങ്ങൾ നടക്കുന്നു ഒരു ദിവസം ഇത് സാധ്യമാകുമെന്ന് ഉറപ്പു നൽകുന്നു പരിമിതമായ കാര്യങ്ങളാൽ വളരെ ഉയർന്ന ഡയറക്ടിവിറ്റി ഉള്ള ആൻറിന ശ്രേണികൾ നിർമ്മിക്കുവാൻ കഴിയുമെന്ന കാഴ്ചപ്പാട് ആൻറിന ഗവേഷകർക്ക് ശ്രേണി ആലേഖകർക്ക് നഷ്ടപ്പെട്ടിട്ടില്ല ഇത് വളരെ വികസിച്ച ഒരു മേഖലയാണ് പദാർഥങ്ങൾ സൂത്രവാക്യങ്ങൾ മുതലായ വളരെ പ്രാധാന്യമുള്ളത് ആകണമെന്നില്ല പക്ഷേ സാരാംശം എന്താണെന്നു വെച്ചാൽ അത് നമുക്ക് എങ്ങനെ ചെയ്യുവാൻ കഴിയും സ്കെകുനോഫ് എങ്ങനെയാണ് ആ പോളിനോമിയൽ നിർമ്മിച്ചത് എന്നുള്ള കാര്യങ്ങൾ ആണ് അതുപോലെ വ്യത്യസ്തങ്ങളായ മറ്റ് പോളിനോമിയലുകളും ഉണ്ട് അവയിൽ പലതും വളരെ കാര്യക്ഷമമായവ ആണ് ചെബിഷേവ് അതിലൊന്നാണ് പക്ഷേ അതുപോലെയുള്ള നല്ല പ്രത്യേകതകളുള്ള മറ്റു പോളിനോമിയലുകളുമുണ്ട് അവ എളുപ്പത്തിൽ ഈ ചട്ടക്കൂട്ടിലേക്ക് പരിവർത്തനപ്പെടുത്താനും വിശകലനം ചെയ്യുവാനും നമുക്ക് കഴിയും